നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ടെയിൽ കോഴ്സിലേക്ക് ടീച്ചിംഗ് ലേണിംഗ് ഇൻ എഞ്ചിനീയറിംഗിലേക്ക് സ്വാഗതം ആദ്യത്തെ യൂണിറ്റ് എഞ്ചിനീയറിംഗിലെ അദ്ധ്യാപനവും പഠനവും മാത്രമല്ല ഒരു നല്ല എഞ്ചിനീയറുടെ സവിശേഷതകളേയും പരിഗണിക്കുന്നു ഇപ്പോൾ 2015 മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രധാന മാറ്റം അധ്യാപക കേന്ദ്രീകരണത്തിൽ നിന്ന് പഠിതാവിനെ കേന്ദ്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ അർത്ഥമെന്തെന്നാൽ പഠിതാവ് എന്താണ് പഠിക്കേണ്ടത് എത്രത്തോളം പഠിച്ചു എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു പഠിതാവിനെ കേന്ദ്രീകരിച്ച് അതാണ് ഞങ്ങൾ അർത്ഥമാക്കുന്നത് ഒരു നിശ്ചിത ഫലം വിദ്യാർത്ഥി എത്രത്തോളം നേടി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പഠനം അളക്കുന്നത് അല്ലെങ്കിൽ ഫലങ്ങളുടെ നേട്ടത്തിന്റെ തോത് നിർദ്ദേശങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അടിസ്ഥാനമാണെന്ന് പറയുക ഇപ്പോൾ പ്രധാന മാറ്റം അക്രഡിറ്റേഷൻ പ്രക്രിയയിലാണ് എന്താണ് അക്രഡിറ്റേഷൻ അർത്ഥമാക്കുന്നത് ചില ഏജൻസികൾ ഒരു പ്രോഗ്രാം നിശ്ചിത മാനദണ്ഡങ്ങൾ എത്രത്തോളം പാലിക്കുന്നു എന്ന് വിലയിരുത്തുന്നു ഈ മാനദണ്ഡങ്ങൾ പൊതുവെ നിർവചിക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു ഏജൻസിയാണ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുടെ കാര്യത്തിൽ ഇത് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ ആണ് പൊതു പ്രോഗ്രാമുകളുടെ കാര്യത്തിൽ അത് എൻഎഎസി ആണ് അവർ എന്തുചെയ്യും നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ നിർവചിക്കുകയും നിർദ്ദിഷ്ട പ്രോഗ്രാം എത്രത്തോളം നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ട് ഇത് ആവശ്യമാണ് എന്തായാലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യമോ പൊതുവായതോ ആയ ഒരു സാമൂഹിക സ്ഥാപനമാണ് ഇതുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നും നിരവധി തല്പരകക്ഷികളുണ്ട് വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ട് തുടർന്ന് നിങ്ങൾക്ക് സർക്കാർ ഏജൻസികൾ സർവ്വകലാശാലകൾ തുടങ്ങിയവയുണ്ട് ഈ പ്രത്യേക സാമൂഹിക സ്ഥാപനം അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എത്രത്തോളം നിറവേറ്റുന്നുവെന്ന് ബന്ധപ്പെട്ടവരെ ബോധവാന്മാരാക്കണം അക്രഡിറ്റേഷൻ പ്രക്രിയ ശരിക്കും ആ ലക്ഷ്യത്തെ സഹായിക്കുന്നു നിർദ്ദിഷ്ട ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ എഞ്ചിനീയറിംഗിൽ യുജി പിജി പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യുന്ന മിക്ക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവരുടെ പ്രോഗ്രാമുകൾക്കും നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന്റെ അംഗീകാരം ഉണ്ടാകണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു യുജി പിജി തലത്തിലുള്ള എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ എൻബിഎയുടെ പരിധിയിൽ വരും 2015 മുതൽ എൻബിഎ എല്ലാ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾക്കും പ്രോഗ്രാം ഫലങ്ങൾ കൈവരിക്കാനും അവരുടെ പ്രകടനം തുടർച്ചയായി മെച്ചപ്പെടുത്തുന്നുണ്ടെന്ന് തെളിയിക്കാനും ആവശ്യമാണ് പ്രോഗ്രാം ഫലങ്ങൾ എന്ന വാക്ക് അല്പം ശ്ലഥമായ രീതിയിൽ ഞങ്ങൾ നിർവചിക്കും പക്ഷേ അവ എന്താണെന്ന് കുറച്ച് കഴിഞ്ഞ് വിശദീകരിക്കും പല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തങ്ങളുടെ സ്ഥാപനം എൻഎഎസി അംഗീകാരം നേടാൻ ആഗ്രഹിക്കുന്നു നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിലാണ് എൻഎഎസി വ്യത്യാസം നാഷണൽ അല്ലെങ്കിൽ എൻഎഎസിക്ക് ചില പ്രോഗ്രാമുകൾ വിശദമായി നോക്കുമ്പോളും സ്ഥാപനപരമായ അംഗീകാരം മാത്രമേ ആവശ്യമുള്ളൂ പക്ഷേ സ്ഥാപനത്തിന്റെ മറ്റൊരു കൂട്ടം സവിശേഷതകളെ അവലോകനം ചെയ്യാനും വിലയിരുത്താനും അവർ ആഗ്രഹിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ എല്ലാ അദ്ധ്യാപന പഠന പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്ത് നടത്തുകയും വിദ്യാർത്ഥികൾക്ക് നന്നായി നിർവചിക്കാവുന്നതും അളക്കാവുന്നതുമായ ഫലങ്ങൾ കൈവരിക്കാൻ സഹായിക്കുകയും വേണം ഇതിനെ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം എന്നാണ് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ എല്ലാ ഫാക്കൽറ്റി അംഗങ്ങൾക്കും അവരുടെ മുമ്പത്തെ പ്രവർത്തനങ്ങൾ ഇതുമായി നേരിട്ട് ബന്ധമില്ലാത്തതിനാൽ ഒബിഇ ഉണ്ടായിരിക്കണമെന്നത് ഈ പുതിയ ആവശ്യകതയാണ് അവർ ഇതിനെ എതിർക്കുന്നില്ല പക്ഷേ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസവുമായി അവർ പൂ൪ണ്ണമായും പൊരുത്തപ്പെടുന്നില്ല ഇപ്പോൾ ഈ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് അധ്യാപകരെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ഒരു കോഴ്സാണ് ടെയിൽ ഇപ്പോൾ ടെയിൽ ലക്ഷ്യമിടുന്നത് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിൽ അധ്യാപകരെ പ്രാപ്തരാക്കുക എന്നതാണ് അവരുടെ വിദ്യാർത്ഥികൾക്ക് ബിരുദ സമയത്ത് നല്ല എഞ്ചിനീയർമാരാകാൻ ഇത് സഹായകമാകുന്നു ഏതൊരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമും ലക്ഷ്യമിടേണ്ടത് അതാണ് കോഴ്സ് 4 മൊഡ്യൂളുകൾ പഠന ഫലങ്ങൾ കോഴ്സ് ഡിസൈൻ നിർദ്ദേശം അക്രഡിറ്റേഷൻ എന്നിവയായി വാഗ്ദാനം ചെയ്യുന്നു ഓരോ മൊഡ്യൂളും ഒരു ക്രെഡിറ്റ് ലോഡാണ് അത് ഏകദേശം 10 ക്ലാസ് റൂം സെഷനുകൾക്ക് തുല്യമാണ് ഓരോ മൊഡ്യൂളിനും ഏകദേശം അര മണിക്കൂർ വീഡിയോ പ്രഭാഷണങ്ങളുടെ 20 യൂണിറ്റുകളായി വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ ഓരോ യൂണിറ്റിനും ഒരു കൂട്ടം അസൈൻമെന്റുകൾ ഉണ്ടായിരിക്കും ഇതാണ് ടെയിലിൻ്റെ ഘടന TALE എന്ന കോഴ്സിൽ ആർക്കാണ് ആർക്കായിരിക്കും താൽപ്പര്യം ഏറ്റവും പ്രധാനമായി അധ്യാപകർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ജോലി ചെയ്യുന്ന പരിചയസമ്പന്നരായ അല്ലെങ്കിൽ പുതുതായി റിക്രൂട്ട് ചെയ്ത അധ്യാപകർ അധ്യാപകർ ആകാൻ അഭിലാഷിക്കുന്നവർ അധ്യാപന തൊഴിലിനു പുറത്തുള്ളവരും ഇതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരും വിദ്യാഭ്യാസ സാങ്കേതികവിദ്യയിൽ തങ്ങളുടെ കരിയർ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ബിരുദ വിദ്യാർത്ഥികളും ഈ ദിവസങ്ങളിൽ വളരെയധികം കോർപ്പറേറ്റ് പരിശീലനം ലഭിക്കാറുണ്ട് കോർപ്പറേറ്റുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ സാങ്കേതികവിദ്യകളും പരിശീലന പരിപാടികളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു അത്തരം കമ്പനികൾക്കും ഈ കോഴ്സിൽ താൽപ്പര്യമുണ്ടാകും എൻ്റെ സുഹൃത്ത് പ്രൊഫ രജനീകാന്ത് നൽകിയ ഇൻപുട്ടുകളും അഭിപ്രായങ്ങളും എനിക്ക് വളരെ വിലപ്പെട്ടതാണെന്ന് അംഗീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമുക്ക് TALE ൻ്റെ ഘടന നോക്കാം മൊഡ്യൂൾ 1 ഞങ്ങൾ അതിനെ "പഠന ഫലങ്ങൾ" എന്ന് നാമകരണം ചെയ്തു ആരാണ് നല്ല എഞ്ചിനീയർ എന്താണ് ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം അക്രഡിറ്റേഷൻ അവ എങ്ങനെ തരംതിരിക്കപ്പെടുന്നു പഠനത്തിന്റെ ടാക്സോണമി കോഴ്സ് ഫലങ്ങൾ എങ്ങനെ എഴുതാം വിശാലമായി നിങ്ങൾ ഫലങ്ങളുടെ നേട്ടം എങ്ങനെ അളക്കുന്നു എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ഇത് പരിശോധിക്കും മൊഡ്യൂൾ 1 ന്റെ ഘടകങ്ങളാണിവ ഇവ 20 ഓളം യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്നു മൊഡ്യൂൾ 2 "കോഴ്സ് ഡിസൈൻ" ആണ് ഈ കോഴ്സ് ഡിസൈൻ പ്രോസസ്സ് മൊഡ്യൂൾ 1 ന്റെ അറിവ് ഏറ്റെടുക്കുകയും കോഴ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ADDIE മോഡലിന്റെ ചട്ടക്കൂടിലാണ് ADDIE മോഡലിന് 5 ഘട്ടങ്ങളുണ്ട് ഒരു വിശകലന ഘട്ടം രൂപകൽപ്പന ഘട്ടം വികസന ഘട്ടം നടപ്പാക്കൽ ഘട്ടം ഘട്ടം വിലയിരുത്തുക ഓരോ ഘട്ടത്തെയും എങ്ങനെ വിശദമായി നോക്കാമെന്ന് കോഴ്സ് പരിശോധിക്കും കൂടാതെ കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നതിനായി ഓരോ ഘട്ടത്തിനും ഒരു തരം ടെംപ്ലേറ്റ് അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കും മൊഡ്യൂൾ 3 "ഇൻസ്ട്രക്ഷനുമായി" ബന്ധപ്പെട്ടതാണ് കൂടാതെ ഞങ്ങൾ ഇൻസ്ട്രക്ഷൻ ഡിസൈൻ ഇൻസ്ട്രക്ഷണൽ രീതികൾ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശ രീതികൾ പ്രത്യേകിച്ചും പ്രബോധന തന്ത്രങ്ങൾ അവ മറ്റൊന്നുമല്ല പ്രബോധന രീതികളുടെ ഒരു ശേഖരം ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് എഴുതുന്നതിനുള്ള സ്ക്രിപ്റ്റ് ഞങ്ങൾ വിശാലമായി പഠനരൂപകൽപ്പന എന്നു വിളിക്കുന്നവയാണ് പ്രോജക്റ്റുകൾക്കും അവതരണങ്ങൾക്കുമായുള്ള നിർദ്ദേശങ്ങളും നോക്കും മൊഡ്യൂൾ 4 "അക്രഡിറ്റേഷനുമായി" ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് എൻബിഎ അക്രഡിറ്റേഷനോ എൻഎഎസി അക്രഡിറ്റേഷനോ ആകാം ഈ ദിവസങ്ങളിൽ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾക്ക് എൻബിഎ അക്രഡിറ്റേഷനിൽ മാത്രമല്ല താൽപ്പര്യം അവർ എൻഎഎസി അക്രഡിറ്റേഷനും തേടുന്നു വിശാലമായി അതാണ് TALE എന്ന കോഴ്സിന്റെ ഘടന കോഴ്സ് ഫലങ്ങളായി ഒരാൾ എഴുതേണ്ട പ്രസ്താവനകളെക്കുറിച്ച് സംസാരിക്കാതെ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ നേടാൻ ശ്രമിക്കുന്ന ഫലങ്ങൾ എന്താണെന്ന് ഞങ്ങൾ പരാമർശിക്കും ഈ കോഴ്സിന്റെ അവസാനം അതായത് 4 മൊഡ്യൂളുകൾക്ക് ശേഷം വിദ്യാർത്ഥികൾ ഇവിടെ പഠിതാക്കൾ അധ്യാപകരും അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവരും ആണ് അവർക്ക് മൊഡ്യൂൾ 1 ൽ എൻബിഎ ആവശ്യപ്പെടുന്ന ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ സ്വഭാവവും എഞ്ചിനീയറിംഗിലെ ഒരു ബിരുദ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യങ്ങളും ഫലങ്ങളും മനസിലാക്കാൻ കഴിയും അതിനാൽ വിശാലമായി അതാണ് നമ്മുടെ ആദ്യ കോഴ്സ് ഫലങ്ങളിൽ ഒന്ന് പഠിതാക്കൾക്കിടയിൽ ആശയവിനിമയം നടത്താൻ ഞങ്ങൾക്ക് ഒരുതരം ഭാഷ ആവശ്യമാണ് അവിടെയാണ് ഞങ്ങൾ ടാക്സോണമിയെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ നോക്കുന്ന പഠനത്തിൻ്റെ പ്രത്യേക ടാക്സോണമി ആൻഡേഴ്സൺ ബ്ലൂം വിൻസെൻ്റി ടാക്സോണമി എന്ന് വിളിക്കപ്പെടുന്നതാണ് അപ്രകാരം കോഴ്സ് ഫലം ഇതാണ് ആൻഡേഴ്സൺ ബ്ലൂം വിൻസെൻ്റി ടാക്സോണമിയും പഠനത്തിന്റെ മൂന്ന് ഡൊമെയ്നുകളും മനസ്സിലാക്കുക കോഴ്സ് ഫലം മൂന്ന് തുടർന്ന് ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ ഒരു കോഴ്സിൻ്റെ ഫലങ്ങൾ എങ്ങനെ എഴുതാമെന്ന് ഞങ്ങൾ മനസിലാക്കുന്നു അത് പ്രോഗ്രാം ഫലങ്ങളുടെയും പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങളുടെയും ഒരു ഉപസെറ്റിനെ അഭിസംബോധന ചെയ്യുന്നു അതിനാൽ മൊഡ്യൂളിൻ്റെ മൂന്ന് കോഴ്സ് ഫലങ്ങൾ ഇവയാണ് കൂടാതെ മൊഡ്യൂൾ 2 ADDIE യുടെ ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം ഡിസൈൻ ചട്ടക്കൂടിൽ ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ ഒരു കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നത് നോക്കുന്നു കോഴ്സ് ഫലങ്ങളുമായി നല്ല രീതിയിൽ യോജിക്കുന്ന വിലയിരുത്തൽ രൂപകൽപ്പന ചെയ്യുന്നതിന് ഞങ്ങൾ പ്രത്യേകമായി ഊന്നൽ നൽകുന്നു കോഴ്സ് ഫലങ്ങളും വിലയിരുത്തലും നിർദ്ദേശവും തമ്മിൽ മികച്ച വിന്യാസം ഉറപ്പാക്കുന്ന കോഴ്സ് ഫലങ്ങളും കഴിവുകളും നേടുന്നതിന് മെറിലിന്റെ തത്ത്വങ്ങൾ പാലിക്കുന്ന ഡിസൈൻ നിർദ്ദേശമാണ് മൊഡ്യൂൾ 3 യിൽ ഞങ്ങൾ വിശദീകരിക്കുന്നത് മൊഡ്യൂൾ 4 ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ എൻബിഎ അക്രഡിറ്റേഷന് സജ്ജമാകുക CO8 കോഴ്സ് ഫലം 8 ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിൽ എൻഎഎസി അക്രഡിറ്റേഷനായി തയ്യാറെടുക്കുക അപ്രകാരം ഇവ TALE ൻ്റെ കോഴ്സ് ഫലങ്ങളാണ് ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി മൊഡ്യൂൾ 1 ലേക്ക് വരുന്നു ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന്റെ പഠന ഫലങ്ങൾ ആദ്യം ഒരു നല്ല എഞ്ചിനീയറുടെ സ്വഭാവം വിദ്യാഭ്യാസം അദ്ധ്യാപനം പഠനം വിലയിരുത്തൽ നിർദ്ദേശം എന്നിവ മനസ്സിലാക്കേണ്ടതുണ്ട് ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തിലേക്ക് ഞങ്ങൾ നോക്കുന്നു അക്രഡിറ്റേഷന്റെ പങ്ക് ഫലങ്ങളുടെ അളവ് എൻബിഎയുടെ പ്രോഗ്രാം ഫലങ്ങൾ എന്നിവ ഞങ്ങൾ പരിശോധിക്കുന്നു എൻബിഎയുടെ പ്രോഗ്രാം ഫലങ്ങളുടെ സ്വഭാവം തുടർന്ന് പഠന ടാക്സോണമി എന്നിവ മനസിലാക്കാൻ ഞങ്ങൾ വളരെയധികം സമയമെടുക്കുന്നു ഈ അറിവിനെ അടിസ്ഥാനമാക്കി ഞങ്ങൾ പ്രോഗ്രാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങൾ കോഴ്സ് ഫലങ്ങൾ എന്ന് നിങ്ങൾ വിളിക്കുന്നവ ഞങ്ങൾ എഴുതുന്നു ഈ മൂന്ന് തരത്തിലുള്ള ഫലങ്ങളുടെ പ്രത്യേക അർത്ഥം ആദ്യഘട്ടത്തിൽ ഞങ്ങൾ അത് നോക്കും ഇപ്പോൾ എഞ്ചിനീയർമാർ എന്താണ് ചെയ്യുന്നത് ആരാണ് നല്ല എഞ്ചിനീയർമാർ എന്ന് മനസിലാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നല്ല എഞ്ചിനീയർമാർ എന്താണെന്ന് നമ്മൾ മനസിലാക്കുന്നതിന് മുമ്പ് എഞ്ചിനീയർമാർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക നമുക്ക് സീക്വൻസ് അല്പം മാറ്റാം എഞ്ചിനീയർമാർ സാമാന്യമായി ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ പ്ലാൻ ഡിസൈൻ ഡെവലപ്മെന്റ് മാനുഫാക്ചറിംഗ് ടെസ്റ്റ് ഇൻസ്റ്റാൾ ടെക്നിക്കൽ ഉൽപ്പന്നങ്ങളും സിസ്റ്റങ്ങളും പരിപാലിക്കുക ഇവ ചെയ്യും തീർച്ചയായും ഏതെങ്കിലും ഒരൊറ്റ എഞ്ചിനീയർ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യില്ല ഒരുപക്ഷേ തൻ്റെ കരിയറിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ അദ്ദേഹം ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കാം എന്നാൽ ഏത് സമയത്തും വലിയതോതിൽ അദ്ദേഹം ഈ പ്രവർത്തനങ്ങളിലൊന്നിൽ ഏർപ്പെടുന്നു ഈ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് ചില സമ്പത്ത് സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കും വീണ്ടും എഞ്ചിനീയർമാർ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുക മാത്രമല്ല ചിലപ്പോൾ എഞ്ചിനീയർമാർ സാങ്കേതിക ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപയോഗിച്ച് സേവനങ്ങൾ നൽകുന്നു അവർ സേവനങ്ങൾ നൽകുന്നു നിങ്ങൾ ഒരു വൈദ്യുത വിതരണമോ ജലവിതരണമോ എടുക്കുമ്പോൾ എഞ്ചിനീയർമാർ ഈ ഉൽപ്പന്നങ്ങളിൽ ശരിയായ തരത്തിലുള്ള സേവനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് വീണ്ടും ആദ്യത്തേതിലേക്ക് വരുന്നത് എഞ്ചിനീയർമാർ വളരെ അപൂർവമായി ഏകാന്തമായി പ്രവർത്തിക്കുന്നു എല്ലായ്പ്പോഴും ഏത് പ്രവർത്തനത്തിലും എഞ്ചിനീയറിംഗ് പ്രവർത്തനത്തിൽ ഒരു കൂട്ടം എഞ്ചിനീയർമാർ ഉൾപ്പെടും ഒന്നുകിൽ ഒരേ കഴിവിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ശ്രേണിക്രമത്തിൽ സംഘടിപ്പിക്കപ്പെടും കൂടാതെ ചില എഞ്ചിനീയർമാരല്ലാത്തവർ സാമൂഹികമായി പ്രസക്തമായ സങ്കീർണ്ണമായ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കും എഞ്ചിനീയർമാർ ചെയ്യുന്നത് അതാണ് എന്നാൽ ഇവയെല്ലാം ചെയ്യുമ്പോൾ അവ കൃത്യമായി നിർവചിക്കപ്പെട്ട പ്രൊഫഷണൽ ധാർമ്മിക മാനദണ്ഡങ്ങൾക്കകത്ത് പ്രവർത്തിക്കാനും പെരുമാറാനും ആവശ്യമാണ് കാരണം ഓരോ പ്രൊഫഷണൽ ഓർഗനൈസേഷനും പെരുമാറ്റത്തിന് ചില ആവശ്യകതകളുണ്ട് മാത്രമല്ല ഇവ പ്രൊഫഷണൽ ധാർമ്മിക മാനദണ്ഡങ്ങളായി വിശദീകരിക്കപ്പെടുന്നു അതിനാൽ എല്ലാ എഞ്ചിനീയർമാർക്കും അവയ്ക്കകത്ത് നിന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ആരാണ് നല്ല എഞ്ചിനീയർ എന്ന് മനസിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ആരാണ് നല്ല എഞ്ചിനീയർ എന്ന് ഞങ്ങൾ എവിടെ കണ്ടെത്തും എഞ്ചിനീയർമാർ പ്രധാനമായും വ്യവസായങ്ങളിൽ ജോലി ചെയ്യുന്നവരായതിനാലാണ് ഞങ്ങൾ പോയി ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആദരിക്കപ്പെടുന്ന വ്യവസായങ്ങളെ സമീപിച്ച് അവരുടെ സിഇഒയോടോ മാനേജർമാരോടോ ആരെയാണ് നല്ല എഞ്ചിനീയറായി പരിഗണിക്കുന്നതെന്ന് പറയാൻ ആവശ്യപ്പെടുന്നു ഇത്തരത്തിലുള്ള സർവേകൾ പലതവണ നടത്തിയിട്ടുണ്ട് കാരണം ആവശ്യകതകൾ മാറുന്നതിനനുസരിച്ച് സാങ്കേതികവിദ്യ മാറുന്നതിനനുസരിച്ച് നല്ല എഞ്ചിനീയർ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതിനാൽ ഇത് ഒരു നല്ല എഞ്ചിനീയറുടെ സവിശേഷതകളായി അവർ പരിഗണിക്കുന്നതിന്റെ ഒരു സംഗ്രഹമാണ് ചില കമ്പനികൾ സൂചിപ്പിച്ചിരിക്കുന്നതിനേക്കാൾ ഉയർന്ന മുൻഗണനയായി എന്തെങ്കിലും പരിഗണിക്കാം പക്ഷേ അവ സൂചിപ്പിക്കുന്നത് ഒരു പ്രത്യേക ശ്രേണിക്രമത്തിൽ ക്രമീകരിക്കണമെന്നില്ല എല്ലാ നല്ല എഞ്ചിനീയർമാർക്കും എഞ്ചിനീയറിംഗ് സയൻസുകളെയും സാങ്കേതികവിദ്യകളെയും കുറിച്ച് നല്ല അറിവ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവയെല്ലാം ആരംഭിക്കും അതിൽ മറ്റൊരു അഭിപ്രായമില്ല എഞ്ചിനീയറിംഗ് സയൻസുകളെയും സാങ്കേതികവിദ്യകളെയും കുറിച്ചുള്ള അറിവില്ലാത്തതിന് ഒന്നും പകരമാവില്ല നന്നായി നിർവചിക്കപ്പെട്ടതും മോശമായി നിർവചിക്കപ്പെട്ടതുമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് മറ്റൊന്ന് കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രധാനമായും സുനിർവചിതമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമ്മൾ പരിശീലനം നേടാൻ സാധ്യതയുണ്ട് ഞങ്ങൾ അതിനെ ചാപ്റ്റർ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന പരീക്ഷാ പ്രശ്നങ്ങൾ എന്ന് വിളിക്കുന്നു എന്നാൽ യഥാർത്ഥ ലോകത്തിലെ പ്രശ്നങ്ങൾ ഒരിക്കലും കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ല അതിനാൽ മോശമായി നിർവചിക്കപ്പെട്ട ഒരു പ്രശ്നം സുനിർവചിതമായ പ്രശ്നമായി പരിവർത്തനം ചെയ്യാനും പരിഹരിക്കാനും ഒരാൾക്ക് കഴിയണം ആ പ്രക്രിയ വളരെ ലളിതമല്ല അതിൽ അടിസ്ഥാനമുള്ളതോ ഇല്ലാത്തതോ ആയ നിരവധി അനുമാനങ്ങൾ ഉൾപ്പെടുന്നു അതിനാൽ ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങൾ അനുശാസകമായ ആവശ്യങ്ങൾ എന്ന് വിളിക്കുന്നവയാണ് ഒരു നല്ല എഞ്ചിനീയറുടെ മറ്റൊരു സ്വഭാവം ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും വിപണി പ്രവണതകളെക്കുറിച്ചും ഉള്ള അവബോധം ഒരു എഞ്ചിനീയർ ചെയ്യുന്നതെന്തും അയാൾ ആരുടെയെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് ഒന്നുകിൽ സർക്കാർ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു അല്ലെങ്കിൽ ഒരു കമ്പനി ചില സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഏതൊരു നല്ല എഞ്ചിനീയറുടെയും ആവശ്യകതകളിലൊന്ന് ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളെയും വിപണി പ്രവണതകളെയും കുറിച്ചുള്ള അവബോധമാണ് ഒരാൾ മനോഹരമായ ഒരു ഉൽപ്പന്നം രൂപകൽപ്പന ചെയ്യുകയും അത് നിലവിലെ മാർക്കറ്റ് ട്രെൻഡുകൾക്ക് പ്രസക്തമല്ലെങ്കിൽ ഉൽപ്പന്നം വിപണി അംഗീകരിക്കാൻ സാധ്യതയില്ല അടുത്തത് ഒരു ടീമിൽ പ്രവർത്തിക്കാനുള്ള കഴിവാണ് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഞ്ചിനീയർമാർ എല്ലായ്പ്പോഴും ടീമുകളിൽ പ്രവർത്തിക്കുന്നു അതിനാൽ ആരും ഏകാന്തമായി പ്രവർത്തിക്കുന്ന പ്രശ്നമില്ല അതിനാൽ ഒരാൾക്ക് സ്വന്തം കഴിവുകൾ ആവശ്യമുള്ള ഒരു ടീമിൽ പ്രവർത്തിക്കാൻ കഴിയണം ഒരു ടീമിൽ പ്രവർത്തിക്കാൻ ഒരാൾക്ക് വളരെ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല മറ്റുള്ളവരുമായി പ്രവർത്തിക്കാൻ ഒരാൾ പഠിക്കണം പദ്ധതി ആസൂത്രണം ചെയ്യാനും ഫലപ്രദമായി ആശയവിനിമയം നടത്താനുമുള്ള കഴിവ് ഉണ്ടാകണം നിർഭാഗ്യവശാൽ ഇത് ഇന്ത്യൻ പശ്ചാത്തലത്തിലാണ് ഏറ്റവും പ്രധാനമെന്ന് നിങ്ങൾ കരുതുന്നത് എങ്ങനെയെങ്കിലും പല എഞ്ചിനീയർമാരും ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം ഒരു ദ്വിതീയ ആവശ്യകതയാണെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് പ്രാഥമിക ആവശ്യമെന്നും കരുതുന്നു എന്നാൽ നിങ്ങൾ പല കമ്പനികളോടും ചോദിച്ചാൽ പദ്ധതി രേഖപ്പെടുത്താനും ഫലപ്രദമായി ആശയവിനിമയം നടത്താനുമുള്ള ഈ കഴിവ് അവർ പരിഗണിക്കുന്നു തികച്ചും മുകളിൽ സാങ്കേതികവിദ്യകൾ തുടർച്ചയായി മാറുകയും മാർക്കറ്റ് ട്രെൻഡുകൾ 4 വർഷമോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദത്തിൻറെ 2 വർഷമോ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ തുടർച്ചയായി മാറ്റുകയും ചെയ്യുന്നു ഔപചാരിക പ്രോഗ്രാമിനുശേഷം നിങ്ങളുടെ പഠനം നിർത്താൻ കഴിയില്ല ജോലിയിൽ നിങ്ങൾ തുടർച്ചയായി പഠിക്കണം അതിനാൽ ജോലിയിൽ പഠിക്കാനുള്ള സന്നദ്ധതയും കഴിവും ഒരു പ്രധാന ആവശ്യകതയാണ് എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങളുടെ എല്ലാ വശങ്ങളിലും താൽപ്പര്യവും അവബോധവും ഉണ്ടായിരിക്കുക മറ്റെല്ലാ വശങ്ങളെക്കുറിച്ചും ഒരാൾ അറിഞ്ഞിരിക്കണം ഒരു എഞ്ചിനീയറുടെ ജോലി എന്തെങ്കിലും രൂപകൽപ്പന ചെയ്യുക എന്തെങ്കിലും പരീക്ഷിക്കുക ഡോക്യുമെന്റ് ചെയ്യുക എന്നിവയിൽ അവസാനിക്കുന്നില്ല അതിന്റെ എല്ലാ വശങ്ങളും എന്താണെന്ന് ഒരാൾ അറിഞ്ഞിരിക്കണം ഇവ ഒരു നല്ല എഞ്ചിനീയറുടെ സവിശേഷതകളാണ് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നല്ല എഞ്ചിനീയർമാരുടെ ഈ സവിശേഷതകളെല്ലാം ഫലപ്രദമായി ഉൾക്കൊള്ളുകയും അവയെ ഒരു ബിരുദ പ്രോഗ്രാമുകളുടെ ആവശ്യമായ ഫലമായി ചിത്രീകരിക്കുകയും പ്രോഗ്രാം ഫലങ്ങളായി വിളിക്കുകയും ചെയ്യുന്നു മറ്റൊരു യൂണിറ്റിൽ എൻബിഎ പ്രസ്താവിച്ച 12 ഫലങ്ങൾ ഞങ്ങൾ കാണും ഇപ്പോൾ എല്ലാ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളും അറിവ് കഴിവുകൾ മനോഭാവം എന്നിവ നൽകേണ്ടതുണ്ട് അത് പ്രോഗ്രാം ഫലങ്ങളായി പ്രസ്താവിക്കുകയും പന്ത്രണ്ടാം ക്ലാസ് ബിരുദധാരികൾക്ക് സൌകര്യമൊരുക്കുകയും വേണം അതാണ് ഒരു നല്ല എഞ്ചിനീയറുടെ സവിശേഷതകൾ നേടുന്നതിനുള്ള എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലേക്കുള്ള എൻട്രി അതാണ് ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ആയിരിക്കേണ്ടത് ഓക്കേ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു അസൈൻമെന്റാണ് പ്രഭാഷണത്തിൽ അവതരിപ്പിച്ചതിലും അപ്പുറത്തേക്ക് അൽപ്പം പര്യവേക്ഷണം ചെയ്യാനുള്ള ഒരു വലിയ ഉദ്ദേശ്യമാണ് അസൈൻമെന്റുകൾ ഉദാഹരണത്തിന് ഒരു നല്ല എഞ്ചിനീയർമാരുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു നിങ്ങളുടെ പ്രിയപ്പെട്ട നല്ല എഞ്ചിനീയറെ തിരിച്ചറിയാൻ കഴിയുമോ നിങ്ങൾക്ക് നെറ്റിൽ നോക്കാം ഇൻറർനെറ്റിൽ ഈ വിഷയ സംബന്ധിയായ ധാരാളം രചനകൾ ലഭ്യമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട നല്ല എഞ്ചിനീയറെ തിരിച്ചറിയാനും തിരഞ്ഞെടുക്കാനും 250 മുതൽ 400 വരെ വാക്കുകൾ എവിടെനിന്നും എഴുതാനും കഴിയും എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ അല്ലെങ്കിൽ അവളെ ഒരു നല്ല എഞ്ചിനീയറായി പരിഗണിക്കുന്നത് അത് ആദ്യത്തെ യൂണിറ്റിന്റെ അവസാന ഭാഗത്തുള്ള അസൈൻമെന്റുകളാണ് തുടർന്ന് ഞങ്ങൾ മറ്റൊരു യൂണിറ്റ് M1U2 ലേക്ക് നീങ്ങുന്നു വിദ്യാഭ്യാസം അദ്ധ്യാപനം എന്നീ പരിചിതമായ പദങ്ങൾ വീണ്ടും അവതരിപ്പിക്കാൻ M1U2 ശ്രമിക്കുന്നു ഇവ വാക്കുകളാണ് വിദ്യാഭ്യാസം അദ്ധ്യാപനം എന്നിവ എല്ലാവർക്കും പരിചിതമായ ഒന്നാണ് എന്നാൽ പലതവണ അവ പരസ്പരം മാറിമാറി അല്ലെങ്കിൽ അവ്യക്തമായി ഉപയോഗിക്കുന്നു എന്നാൽ ഒരു അദ്ധ്യാപകനെന്ന നിലയിൽ "വിദ്യാഭ്യാസം" "അദ്ധ്യാപനം" എന്നീ പദങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം അവ ഇനിപ്പറയുന്ന യൂണിറ്റിൽ സമഗ്രപഠനം നടത്തുകയും ചെയ്യും നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി